ഡിഫറെൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് ഫോറിയർ സീരീസ് അതിനാൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് II നെക്കുറിച്ചുള്ള ലെക്ചർസിലേക്ക് സ്വാഗതം ഇത് ലെക്ചർ നമ്പർ 38 ഫൊറിയർ സീരീസിന്റെ ഡിഫറെൻസിയേഷനും ഇന്റഗ്രേഷനും അതിനാൽഒരു ഫൊറിയർ സീരീസിനെ എങ്ങനെ ഡിഫറെൻസിയേറ്റ് ചെയ്യാമെന്ന് ഇന്ന് നമ്മൾ വിവരിക്കും ഡിഫറെൻസിയേഷൻ ശേഷം ടേം ഡിഫറെൻസിയേഷൻ അനുസരിച്ച് പുതിയ സീരീസ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഒരു ഫൊറിയർ സീരീസ് ആയിരിക്കുമോ എന്നതാണ് ഞങ്ങളുടെ ആശങ്ക പിന്നെ നമ്മൾ ഇന്റഗ്രേഷൻ ഭാഗത്തേക്ക് നീങ്ങും വീണ്ടും നമ്മൾ അതേ ചോദ്യം അഭിസംബോധന ചെയ്യും ഒരു ഫംഗ്ഷൻ f ന്റെ ഫൊറിയർ സീരീസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുമോ പുതിയ സീരീസ് f ന്റെ അവിഭാജ്യ ഘടകമായ ഫൊറിയർ സീരീസ് ആയിരിക്കുമോ അതിനാൽ നമ്മൾ ആദ്യം ഡിഫറൻഷ്യേഷൻ ഭാഗം ആരംഭിക്കും അതിനാൽ f എന്നത് ഫൊറിയർ സീരിസിലെ ഒരു തുടർച്ചയായ ഫങ്ക്ഷൻ എന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ നമ്മൾ ഫൊറിയർ സീരീസ് എഴുതുമ്പോഴെല്ലാം നമ്മൾ എടുക്കുന്ന അടിസ്ഥാന വ്യവസ്ഥ ഇതാണ് അതിനാൽ അതിന്റെ ഫൊറിയർ സീരീസ് എഴുതാൻ തുടർച്ചയായ ചെറിയ ഫങ്ക്ഷൻ മതി അതിനാൽ ഈ സ്റ്റാൻഡേർഡ് ഫോം നൽകിയ f ന്റെ ഫോറിയർ സീരീസ് ഞങ്ങളുടെ പക്കലുണ്ടെന്ന് കരുതുക ഇപ്പോൾ ഇവിടെ ചോദ്യം ഉയർന്നുവരുന്നു f എന്ന ഫൊറിയർ സീരീസ് ലഭിക്കുന്നതിന് നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഫൊറിയർ സീരിസിനെ ടേം അടിസ്ഥാനമാക്കി ഡിഫറെൻസിയേറ്റ് ചെയ്യാൻ കഴിയുമോ അതിനാൽ ചോദ്യം ഇവിടെ എഴുതിയ ഈ സീരിസിനെ പദത്തിനനുസരിച്ച് ഡിഫറെൻസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയ സീരീസ് ഒരു ഫൊറിയർ സീരീസ് f ആകാം അല്ലെങ്കിൽ ഇത് ഒരു ഫൊറിയർ സീരീസ് ആയിരിക്കില്ല നമുക്ക് നോക്കാം അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ സീരീസ് f ന്റെ ഫോറിയർ സീരിസാണോ എന്ന ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം കാരണം ഈ സീരീസ് വരുന്നത് മുകളിൽ പറഞ്ഞ പരമ്പരയെ ടേം കൊണ്ട് ഡിഫറെൻഷ്യറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ആദ്യ പദം സ്ഥിരമാണ് അതിനാൽ ഇവിടെ നമുക്ക് ഒരു സ്ഥിരാങ്കം ഇല്ല കാരണം ഡിഫറന്സിയേഷൻ ശേഷം ശേഷം അത് 0 ആകും പിന്നെ നമുക്ക് cosnx ഉണ്ട് അത് n എന്ന ഘടകം ഉപയോഗിച്ച് sinnx ആയി മാറിയിരിക്കുന്നു അപ്പോൾ sin nx ഈ cos nx ഉം n എന്ന ഘടകവും ലഭിക്കാൻ ഡിഫറന്സിയേറ്റ് ചെയ്യപ്പെടുന്നു അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ സീരീസ് f ന്റെ ഫോറിയർ സീരിസാണോ എന്ന ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം കാരണം ഈ സീരീസ് വരുന്നത് മുകളിൽ പറഞ്ഞ സീരിസിനെ ടേം കൊണ്ട് ഡിഫറെൻഷ്യറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ആദ്യ പദം സ്ഥിരമാണ് അതിനാൽ ഇവിടെ നമുക്ക് ഒരു സ്ഥിരാങ്കം ഇല്ല കാരണം ഡിഫറെൻഷ്യറ്റ് ശേഷം അത് 0 ആകും പിന്നെ നമുക്ക് cos nx ഉണ്ട് അത് n എന്ന ഘടകം ഉപയോഗിച്ച് − sinnx ആയി മാറിയിരിക്കുന്നു അപ്പോൾ ഈ sinnx n എന്ന എന്ന ഘടകം ഉള്ള cosnx ലഭിക്കാൻ ഡിഫറന്സിയേറ്റ് ചെയ്യപ്പെടുന്നു അതിനാൽ ഇത് പുതിയ സീരീസ് ആണ്n1 nan sin nxnbn cosnx അതിനാൽ ഈ സീരിസാണോ f ന്റെ ഫോറിയർ സീരിസ് എന്നതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് പൊതുവേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല പക്ഷെ പുതിയ സീരിസ് ടേം അനുസരിച്ചുള്ള ഡിഫറൻഷ്യേഷൻ ശേഷം f ന്റെ ഫോറിയർ സീരീസായി മാറുന്നു അതിനാൽ നമുക്ക് ഫങ്ക്ഷൻ f x ന്റെ ഫോറിയർ സീരീസ് ഇവിടെ നോക്കാം ഇടവേള π π ഇതൊരു ഓഡ്ഡ് ഫങ്ക്ഷനാണ് ഇതിനകം നമ്മൾ അതിന്റെ ഫോറിയർ സീരീസ് വിലയിരുത്തിയിട്ടുണ്ട് അതിനാൽ അതിന്റെ ഫൊറിയർ സീരീസ് വെറും സൈൻ സീരീസ് നൽകും ഈ ഘടകം ഇവിടെ2n1n അതിനാൽ ഇത് ഫംഗ്ഷൻ x ന്റെ ഫോറിയർ സീരീസ്ണ്ഒരു ഓഡ്ഡ് ഫങ്ക്ഷൻ അതിനാൽ നമ്മൾ ക്ക് ഇവിടെ സൈൻ പദങ്ങൾ മാത്രമേയുള്ളൂ ഇപ്പോൾ ഈ സീരീസ് ടേമിനെ ടേം അനുസരിച്ച് ഡിഫറന്സിയേറ്റ് ചെയ്താൽ അതിനാൽ ഇപ്പോൾ നമ്മൾ പരമ്പരയെ വേർതിരിക്കുന്നു അതുകൊണ്ട് sinnx cosnx ആകും അതിനാൽ cosnx ലെ n എന്ന ഘടകം റദ്ദാക്കപ്പെടും അതിനാൽ നമുക്ക് 2−1n1 മാത്രമേയുള്ളൂ അതിനാൽ ഇപ്പോൾ ഈ പുതിയ സീരീസ് x ന്റെ ഡെറിവേറ്റീവിന്റെ സീരീസ് അല്ലെന്ന് വ്യക്തമാണ് കാരണം x ന്റെ ഡെറിവേറ്റീവ് 1 ആണ് കൂടാതെ 1 ന്റെ ഫോറിയർ സീരീസ് ഒന്നുമല്ലാതെ മറ്റൊന്നുമല്ല അത് ഒരു സ്ഥിരമായ പദം ആണ് അതിനാൽ തീർച്ചയായും നമുക്ക് ഇവിടെ പുതിയ സീരീസ് കാണാം n12 n1 cos nx ന് 1 ന്റെ ഫൊറിയർ സീരീസ് ആകാൻ കഴിയില്ല കാരണം 1 ന്റെ ഫൊറിയർ സീരീസ് n 1 ആണ് അതിനാൽ ഈ ഉദാഹരണത്തിൽ ടേം ഡിഫറൻഷ്യേഷൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഫോറിയർ സീരിസിലേക്ക് നയിക്കില്ല മറ്റൊരു ലളിതമായ ഉദാഹരണം നമുക്ക് പരിഗണിക്കാം ഉദാഹരണത്തിന് cos x ന്റെ Sine സീരീസ് അതിനാൽ നമ്മൾ cos x ന്റെ സൈൻ സീരീസ് എഴുതുകയാണെങ്കിൽ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആണ് നമ്മൾ സംസാരിക്കുന്നത് അതിനാൽ cos x സൈൻ സീരീസിന്റെ അടിസ്ഥാനത്തിൽ ഈ സീരിസിൽ എഴുതാം n1nsin 2nx4n2 1 പിന്നെ വീണ്ടും നമ്മൾ ഈ സീരീസ് പദത്തെ ടേം അനുസരിച്ച് ഡിഫറന്സിയേറ്റ് ചെയ്താൽ 2n ഉള്ള പുതിയ സീരീസ് ഫാക്ടർ ലഭിക്കും 2 8 ഉപയോഗിച്ച് മെർജ് ആകും പിന്നെ n ന് പകരം n2 ഉണ്ട് അതിനാൽ തന്നിരിക്കുന്ന സീരീസ് ടേം അനുസരിച്ച് ഡിഫറന്സിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ സീരീസ് ലഭിക്കും വീണ്ടും ഈ സീരീസ് sin x ന്റെ ഫോറിയർ സീരീസ് ആകാൻ കഴിയില്ല എന്താണ് sin x അതാണ് cos x ന്റെ ഡെറിവേറ്റീവ് കാരണം നമ്മൾ ഫംഗ്ഷൻ ഡിഫറന്സിയേറ്റ് നമുക്ക് sin x കിട്ടുംഇവിടെ സീരീസ് ഡിഫറന്സിയേറ്റ് ചെയ്തു ഇത് sin x ന്റെ ഫോറിയർ സീരീസ് ആയിരിക്കില്ല കാരണം വ്യക്തമാണ് കാരണം ഈ സീരീസ് ഒരു ഡിവേര്ജന്റ് സീരീസ് ആണ് ഈ പുതിയ സീരീസ് ഡിവെർജ് ചെയ്യും അത് കോൺവെർജ് ചെയ്യുന്നില്ല കാരണം അതിന്റെ nാം പദം നോക്കിയാൽ n2cos2nx4n2 1 ∞ യെ n സമീപിക്കുന്നതായി നമുക്ക് കാണാം ഇത് 0 ലേക്ക് പോകുന്നില്ല അത് നമുക്ക് ഇവിടെ കാണാം ഉദാഹരണത്തിന് എനിക്ക് 4n24n2 1 ഇവിടെ എടുക്കാൻ കഴിയും അതിനുശേഷം പ്ലസ് 1 കുറയ്ക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു അവിടെ നമുക്ക് cos2nx ഉണ്ട് അതിനാൽ ആദ്യ പദം cos 2nx4 ആയിരിക്കും പിന്നെ രണ്ടാമത്തെ ടെം ആയി cos 2nx44n2 1 ഉം n ∞ യിലേക്ക് അടുക്കുമ്പോൾ ഇത് 0 ആയി മാറും n ∞ ലേക്ക് ടെൻറ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 14cos 2nx നിലനിൽക്കില്ല വാസ്തവത്തിൽ ഈ പരിധി നിലവിലില്ല അതിനാൽ ഇത് തീർച്ചയായും 0 ന് തുല്യമല്ല ഒരു സീരീസ് കോൺവെർജ് ചെയ്യുന്നതിന് ആവശ്യമായ വ്യവസ്ഥ എന്നത് n അനന്തതയിലേക്ക് അടുക്കുമ്പോൾ അതിന്റെ nth പദം 0 ആയിരിക്കണം എന്നതാണ് അതിനാൽ സീരിസ് കോൺവെർജ് ചെയ്യില്ല അതിനാൽ വീണ്ടും ടേം അനുസരിച്ചുള്ള ഡിഫറൻഷ്യേഷൻ ഒരു സീരിസിലേക്ക് കോൺവെർജ് ചെയ്യാത്തതിലേക്ക് നയിച്ചേക്കാം അല്ലെങ്കിൽ f സീരിസ് അല്ലാത്ത ഒരു സീരിസിലേക്ക് നയിച്ചേക്കാം അതിനാൽ നമ്മൾ ചില അധിക നിബന്ധനകൾ സൂചിപ്പിക്കുന്നു ഈ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കാനുള്ള ചില അധിക വ്യവസ്ഥകൾ ടേം ഡിഫറൻഷ്യേഷൻ അനുസരിച്ച് സാധുതയുള്ളതാണ് പുതിയ സീരീസ് ഡിഫറൻഷ്യേഷൻ ശേഷം f ന്റെ ഡെറിവേറ്റീവ് സീരീസായി മാറുന്നു അതിനാൽ ഇവിടെ നമുക്ക് സമാനമായ സിദ്ധാന്തം ഉണ്ട് അതിനാൽ f കണ്ടിന്യൂസ് ആണെങ്കിൽ ഒന്നാമതായി നമുക്ക് ഇവിടെ തുടർച്ച ആവശ്യമാണ് കേവലം തുടർച്ചയല്ല അതിനാൽ തന്നിരിക്കുന്ന ഇടവേളയിൽ f തുടർച്ചയായി തുടരുകയാണെങ്കിൽ നമുക്ക് ഇത് −L മുതൽ L വരെ സാമാന്യവൽക്കരിക്കാനാകും കൂടാതെ അവസാന പോയിന്റുകളിലും നമുക്ക് തുടർച്ചയുണ്ട് അത് f −π f π ആണ് കൂടാതെ നൽകിയിരിക്കുന്ന ഇടവേളയിൽ f കണ്ടിന്യൂസ് ആണ് കൂടാതെ ഈ ഫംഗ്ഷൻ f ന്റെ ഫൊറിയർ സീരീസ് ആണെങ്കിൽ f ന്റെ ഫൊറിയർ സീരീസ് ഡെറിവേറ്റീവിന്റെ ഫൊറിയർ സീരീസ് സീരീസിന്റെ ടേം ഡിഫറൻഷ്യേഷൻ അനുസരിച്ച് ടേം അനുസരിച്ച് കൃത്യമായി നൽകും അതിനാൽ തന്നിരിക്കുന്ന സീരിസിനെ ടേം ഡിഫറൻഷ്യേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ സീരീസ് കിട്ടും കൂടാതെ ആ പുതിയ സീരീസ് f ന്റെ ഫോറിയെർ സീരീസ് ആയിരിക്കും അതിനാൽ വീണ്ടും എന്തൊക്കെ അവസ്ഥകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്ക് കണ്ടിന്യൂയിറ്റി ആവശ്യമാണ് തുടർച്ച പര്യാപ്തമല്ല തുടർച്ചയായി തുടരുന്നതിന് നമുക്ക് f ആവശ്യമാണ് അതിനാൽ ഇവയ്ക്ക് കീഴിൽ രണ്ട് നിയന്ത്രണങ്ങൾ തന്നിരിക്കുന്ന സീരീസ് ടേം ടേം അനുസരിച്ച് നമുക്ക് ഡിഫറന്സിയേറ്റ് കഴിയുമെന്നും പുതിയ സീരീസ് f ന്റെ ഡെറിവേറ്റീവിന്റെ ഫോറിയർ സീരീസായി മാറുമെന്നും നമുക്ക് കാണിക്കാനാകും കൂടാതെf തുടർച്ചയായി തുടരുന്നതിന്റെ ഫലം നമ്മൾ ക്ക് ഇതിനകം തന്നെ ഉണ്ട് അതിനാൽ f ന്റെ ഏകപക്ഷീയമായ ഡെറിവേറ്റീവുകൾ നിലവിലുണ്ടെങ്കിൽ ഏത് ഘട്ടത്തിലും x f ന്റെ ഈ പരിധികളുടെ ഈ ശരാശരി മൂല്യത്തിന് തുല്യമായ സീരിസിന്റെ ആകെത്തുക നമുക്കുണ്ട് കൂടാതെ ഇത് പുതുമയല്ല കാരണം ഈ ഫലം നേരിട്ട് വരുന്നത് Dirichlet ന്റെ സിദ്ധാന്തത്തിൽ നിന്നാണ് ഇത് നമുക്ക് ഒരു ഫോറിയർ സീരീസ് ഉണ്ടെങ്കിൽ f ഇതിനകം തുടർച്ചയായി തുടരുന്നതും ഈ ഡെറിവേറ്റീവുകളും ആണ് അതിനാൽ ഈ ശരാശരി മൂല്യത്തിലേക്ക് ഫൊറിയർ സീരീസ് കോൺവെർജ് ചെയ്യുന്നതിന് ഉള്ള വ്യവസ്ഥകൾ ഇവയായിരുന്നു അതിനാൽ f ന്റെ ഒരു വശത്തെ ഡെറിവേറ്റീവ് നിലവിലുണ്ടെങ്കിൽ f തുടർച്ചയായി തുടരുന്നു f ഇടത് വലത് ഡെറിവേറ്റീവുകൾ ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ഈ പരിധിയുടെ ശരാശരി മൂല്യമായ ഈ ഫലത്തിലേക്ക് സീരീസ് കൃത്യമായി കോൺവെർജ് ചെയ്യുന്നു അതിനാൽ ഇത് കൃത്യമായി Dirichlet's സിദ്ധാന്തമാണ് ഫൊറിയർ സീരീസിനായുള്ള കോൺവെർഗെൻസ് സിദ്ധാന്തം നമ്മൾ ഇതിനകം പഠിച്ചിട്ടുണ്ട് അതിനാൽ ഇതാണ് കോൺവെർഗെൻസ് സിദ്ധാന്തം ഇപ്പോൾ ഈ സീരീസ് എങ്ങനെ കിട്ടും എന്നതാണ് ചോദ്യം ഈ ഫലം നമുക്ക് കഴിയും എന്ന് പറയുന്നു ഫൊറിയർ സീരീസ് ടേം അനുസരിച്ച് ഡിഫറന്സിയേറ്റ് ചെയ്യുക പുതിയ സീരീസ് f ന്റെ ഫൊറിയർ സീരീസ് ആയിരിക്കും അതിനാൽ ഇത് തെളിയിക്കാൻ നമ്മൾ f എന്ന ഫോറിയെർ സീരിസിൽ നിന്ന് ആരംഭിക്കും F കോണ്ടിനുവേസ് ആയി തുടരുന്നതിനാൽ അത് അനുമാനമാണ് ഫൊറിയർ സീരീസിന്റെ നിലനിൽപ്പിന് ഇത് മതിയാകും f ന്റെ f തുടർച്ചയായി തുടരുന്നതായി കരുതുന്നതിനാൽ അതിന്റെ ഫോറിയർ സീരീസ് നമുക്ക് എഴുതാം അതിനാൽ അപ്പോൾ നമുക്ക് ആരംഭിക്കാം അതിനാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോറിയർ സീരീസിൽ f എന്ന ഫോറിയർ സീരീസ് എഴുതാം പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഗുണകങ്ങളായ a0 an bn എന്നിവ എടുത്തിട്ടില്ല മറിച്ച് ഈ ബാർ ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ശരി അതിനാൽ f എന്നതിന് ഈ സീരീസ് ഉണ്ടായിരിക്കുകയും അത് എല്ലായ്പ്പോഴും സാധ്യമാണ് കാരണം f കോണ്ടിനുവേസ് ആയി തുടരുകയുമാണ് ഇപ്പോൾ ഈ ഗുണകങ്ങൾ വീണ്ടും സാധാരണ ഫോർമുലയിൽ നിന്നാണ് വരുന്നത് 1 π f cosnx dx f എന്നതിനുപകരം ഇപ്പോൾ നമുക്ക് f ഉണ്ട് കാരണം നമ്മൾ ഈ സീരീസ് f എന്നതിനാണ് എഴുതിയത് അതിനാൽ ഇവ f നുള്ള ഫൊറിയർ ഗുണകങ്ങളാണ് അതുപോലെ bn നും നമ്മൾ ക്ക് ഒരേ ഫോർമുലയുണ്ട് 1 π f sinnx dx f എന്നതിനുപകരം മാത്രമാണ് നമ്മൾ ഇവിടെ f എഴുതുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇപ്പോൾ തെളിയിക്കാൻ പ്രയാസമില്ല അതിനാൽ നമ്മൾ ഇവ ലളിതമാക്കു കോഎഫിഷ്യന്റുകൾ a'n b'n എന്നിട്ട് അവയെ an bn എന്നിങ്ങനെ എഴുതുക തുടർന്ന് നമുക്ക് അവയെ മാറ്റി പകരം F ന്റെയും f ന്റെയും ഫൊറിയർ സീരീസ് തമ്മിലുള്ള ബന്ധം കാണാം അതിനാൽ നമുക്ക് f' രണ്ട് ഗുണകങ്ങളുണ്ട് ഒരു s ഉം bn ഉം ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ഭാഗങ്ങളായി ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാൽ f എന്നതിന്റെ ഇന്റഗ്രൽ f ആണ് കൂടാതെ നമുക്ക് cosnx ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ ലിമിറ്സ് നൽകണം π മുതൽ π പിന്നെ നമുക്ക് ചിഹ്നം കൊണ്ട് cosnx നെ ഡിഫറന്സിയേറ്റ് കൂടാതെ ഫോർമുലയിൽ ഇതിനകം ഒരു ഉണ്ട് അതിനാൽ നമുക്ക് അവിടെ ലഭിക്കും F ന്റെ ഇന്റഗ്രൽ f ആണ് തുടർന്ന് sin nx dx എന്നിവയാണ് ഇത് ഡിഫറെൻസിയേഷൻ ശേഷം ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ലിമിറ്സ് വെക്കുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും അതിനാൽ മുകളിലെ പരിധിയിൽ നിന്ന് നമുക്ക് f π cosnπ ഉം പിന്നെ താഴ്ന്ന പരിധിയിൽ നിന്ന് −f −π cosnπ ഉം ¿¿ ചിഹ്നത്തോടെ ലഭിക്കും അതിനാൽ f π f −π ആണെന്ന് നമ്മൾ ക്ക് കൂടുതൽ അനുമാനമുണ്ട് ഫംഗ്ഷൻ അവിടെ ഏൻഡ് പോയിന്റുകളിൽ കണ്ടിന്യൂയിറ്റി നിലനിർത്തുന്നു അതിനാൽ ഇവിടെ ഇത് റദ്ദാക്കപ്പെടും അതിനാൽ ഈ അവസ്ഥ ഉപയോഗിച്ച് നമുക്ക് a'n n ലഭിക്കുന്നു കൂടാതെ ഇത് ഇവിടെ ഇത് bn ആണ് അതിനാൽ ഇത് bnbn എന്നത് f ന്റെ ഫൊറിയർ കോഫിഫിഷ്യന്റിന്റെ സ്റ്റാൻഡേർഡ് നൊട്ടേഷനാണ് അതിനാൽ 1 ഇതിനകം ഇവിടെ ഉണ്ട് അതിനാൽ 1 πf sin nx dx എന്നത് bn ആണ് പിന്നെ ഇവിടെ n ഉണ്ട് അതിനാൽ നമുക്ക് a'n n bn എന്ന് കാണാം കൂടാതെ ഇവിടെ a'0 0 ഇവിടെ n 0 നേരിട്ട് ഇടുകയോ അല്ലെങ്കിൽ a'0 1 πf dxഎന്ന ഫോർമുലയിൽ നിന്ന് നമുക്ക് കാണുകയോ ചെയ്യാം കൂടാതെ നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് f ലഭിക്കുന്നു കൂടാതെ ഇതിനൊപ്പം ലിമിറ് കൂടി ചേരുമ്പോൾ അത് 0 ആകും അതിനാൽ നമുക്ക് a'0 0 ഉം a'n nbn ഉം ഉണ്ട് അതുപോലെ നമുക്ക് b'n an ന്റെ ടേമിൽ കാണിക്കാൻ കഴിയും അതിനാൽ b'n ഭാഗങ്ങളായി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് വീണ്ടും ഈ വ്യവസ്ഥകൾ ഉപയോഗിച്ച് ഈ b'n an മായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് എളുപ്പത്തിൽ കാണിക്കാനാകും ഘടകം n പ്രകാരം അതിനാൽ b'n−nan അതിനാൽ ഇപ്പോൾ ഈ ബന്ധങ്ങൾ ഉള്ളതിനാൽ നമുക്ക് a'n n bn ഉം a'0 0 ഉം b'n n an ഉം ഉണ്ട് അതിനാൽ ഈ ബന്ധങ്ങളെല്ലാം അവിടെയുണ്ട് ഞങ്ങളുടെ പക്കൽ f എന്ന ഫോറിയർ സീരീസ് ഉണ്ട് അതിനാൽ ഇപ്പോൾ ഈ മുകളിലുള്ള കോഎഫീസിന്റ്സ് നമുക്ക് f എന്ന ഫോറിയർ സീരീസ്ൽ മാറ്റിസ്ഥാപിക്കും അതിനാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ a'n b'n സബ്സ്റ്റിട്യൂട് വയ്ക്കാം ഇവിടെ a'00 ആണ് അതിനാൽ മുതൽ n 1 വരെ ഉള്ള സീരിസിൻറെ ലളിതമായ രൂപമാണിത് ഇതാണ് ഫോറിയർ സീരീസ് ഇപ്പോൾ നമ്മൾ f a'n nbn b'n −nan എന്നിവയ്ക്കായി കാത്തിരിക്കുന്നു കൂടാതെ സ്വാഭാവികമായും ഇത് കൃത്യമായി ഡിഫറന്സിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സീരീസാണിത് കാരണം നമ്മൾ ഡിഫറന്സിയേറ്റ് ചെയ്താൽ നമുക്ക് −a0 nsin nx ഉണ്ടാകും കൂടാതെ രണ്ടാമത്തെ ടേമിൽ നിന്ന് നമുക്ക് nbncosnx ലഭിക്കും ഇത് f' ന്റെ ഈ ഫോറിയർ സീരീസ്ൽ നമുക്ക് നേരിട്ട് ലഭിച്ചതുതന്നെയാണ് അതിനാൽ ഇന്റെർണൽ പോയിന്റുകളിൽ f കണ്ടിന്വസ് ആണെന്ന് അനുമാനിക്കുമ്പോൾ ഈ ഫലങ്ങൾ നമുക്ക് ലഭിക്കും കൂടാതെ അതിർത്തി പോയിന്റുകളിലും മൂല്യം തുല്യമാണ് തുടർന്ന് f എന്നത് കണ്ടിന്വസ് ആയി തുടരും അപ്പോൾ നമുക്ക് ഫൊറിയർ സീരിസിനെ ടേം അനുസരിച്ച് ഡിഫറെൻഷ്യറ്റ് ചെയ്യാൻ കഴിയുമെന്നും പുതിയ സീരീസ് F ന്റെ ഫൊറിയർ സീരീസ് ആയിരിക്കുമെന്നും നമുക്ക് എളുപ്പത്തിൽ കാണിക്കാനാകും കൂടാതെ നമ്മൾ ഇതിനകം തന്നെ കോൺവെർഗെൻസ് ചർച്ച ചെയ്തതുപോലെ f ന്റെ അഡിഷണൽ കണ്ടിഷൻസ് നോക്കുകയാണെങ്കിൽ f ന്റെ ഏകപക്ഷീയമായ ഡെറിവേറ്റീവുകളും നിലനിൽക്കുന്ന എഫ് വ്യവസ്ഥകൾ പിന്നെ നിന്ന് ഡിറിക്ലെറ്റിന്റെ സിദ്ധാന്തംDirichlet's theorem പരമ്പരയുടെ ഏത് സമയത്തും f ന്റെ പരിധി ശരാശരി മൂല്യത്തിലേക്ക് കൺവെർജ്സ് ചെയ്യുന്നതായി നമുക്ക് ലഭിക്കും ശരി അതിനാൽ ഇത് ആയിരിന്നു നമുക്ക് ലഭിച്ച ഡിഫറെൻസിയേഷന്റെ ഫലം കൂടാതെ ഒരു പോയിന്റ് കൂടെ ഉണ്ട് നമ്മൾ ഫോറിയർ സീരീസ് ഡിഫറന്സിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലഭിക്കുന്നത് n ആണ് കൂടാതെ അത് പുതിയ സീരിസിനെ കീഴിൽ കോൺവെർജ് ചെയ്യാൻ പ്രയാസകരമാക്കുന്നു യഥാർത്ഥ സീരീസ് എഴുതിയിട്ടുണ്ട് അതിനാൽ ഇവിടെ ഡിഫറെൻസിയേഷൻ ശേഷമുള്ള സീരീസ് കൺവെർഗെൻസ് നിന്ന് n കാരണം കൂടുതൽ ബുദ്ധിമുട്ട് ആയിരിക്കും മറുവശത്ത് ഇപ്പോൾ ഇന്റഗ്രേഷനിൽ നമ്മൾ സീരിസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ n ഗുണനത്തിൽ വരില്ല എന്ന് കാണാം മറിച്ച് അവ ഡിനോമിനേറ്റർ ൽ വരും അപ്പോൾ അത് സീരീസ് പുതിയ സീരീസ് കാഴ്ചപ്പാടിൽ നിന്ന് കോൺവെർഗെൻസ് എളുപ്പമാക്കുന്നു അതിനാൽ ഇപ്പോൾ ഇന്റഗ്രേഷൻ ഭാഗത്തേക്ക് വരുന്നു അതിനാൽ വീണ്ടും f കണ്ടിന്യൂ ആയി തുടരുകയാണെങ്കിൽ ഇനിപ്പറയുന്ന സീരീസുകൾ ആണ് f ന്റെ സ്റ്റാൻഡേർഡ് ഫോറിയർ സീരീസ് പിന്നെ സാരമില്ല ഈ സീരിസ് കോൺവെർജിൻസ് ചെയ്താലും ഇല്ലെങ്കിലും കോൺവെർജിൻസ് ക്കുറിച്ച് നമ്മൾ ക്ക് ആശങ്കയില്ല ഇപ്പോൾ ഓരോ x നും ഈ ഫലം ഉണ്ട് ഈ സീരിസ് −π മുതൽ x വരെ ഇന്റഗ്രേഷൻ ചെയ്താൽ ഇവിടെ നമുക്ക് തുല്യത ലഭിക്കും വീണ്ടും a0 2dx മുതൽ x വരെയുള്ള ഇതിന്റെ ഇന്റഗ്രേഷൻ അതിനാൽ അത് പിന്നെ π ആയിരിക്കും അതിനാൽ a0 2 ഒപ്പം xπ ആണ് കൃത്യമായി ഇവിടെയുള്ള പദം കൂടാതെ നമ്മൾ cosnx ഇന്റഗ്രേഷൻ ചെയ്താൽ നമുക്ക് sin nxn അവിടെ ഉണ്ടാകും കൂടാതെ sin nx ഇന്റഗ്രേഷൻ ചെയ്താൽ നമുക്ക് −cos nxn അവിടെ ഉണ്ടാകും കൂടാതെ cosnx നായി നമുക്ക് −π മുതൽ x വരെയുള്ള ലിമിറ്റ് ഉണ്ട് അതിനാൽ cosnx ലഭിക്കും കൂടാതെ cosnπ യുടെ ഒരു അധിക ഘടകം ഉണ്ടാകും കാരണം Sine നായി ഇവിടെ ഘടകം പ്രത്യക്ഷപ്പെട്ടില്ല sin nπ 0 എന്നാൽ നമുക്ക് ഈ cos ഉണ്ട് രണ്ടാം ടേം ൽ അതിനാൽ നമ്മൾ ഇത് ഇരുവശത്തും −π മുതൽ x വരെ ഇന്റഗ്രേഷൻ ചെയ്താൽ വരുന്ന സീരീസാണ് ഇത് കൂടാതെ ഈ സീരീസ് കോൺവെർജിൻസ ആണെങ്കിലും ഇല്ലെങ്കിലും പ്രശനം ഇല്ല കാരണം ഇവിടെ കോൺവെർജിൻസ് ഉറപ്പുനൽകുന്നില്ല നമ്മൾ കഷണങ്ങളായി മാത്രമേ എടുത്തിട്ടുള്ളൂ തുടർച്ച പക്ഷേ ഈ പുതിയ ഫലം പറയുന്നത് ഇന്റഗ്രേഷൻ ശേഷം ഇത് തുല്യമായി മാറുമെന്നാണ് അതായത് f ന്റെ അവിഭാജ്യഘടകം അതിനാൽ ഡിഫറെൻസിയേഷൻ നമുക്ക് ഉള്ളത് നേരെ മറിച്ചാണ് അവിടെ യഥാർത്ഥ സീരീസ് പോലും കോൺവെർജ്സ് ചെയ്യുന്നു പക്ഷേ പുതിയ സീരീസുകൾ പിന്നീട് ഡിഫറെൻസിയേഷൻ ശേഷം കോൺവെർജ്സ് ചെയ്യുന്നില്ല പക്ഷേ ഇന്റഗ്രേഷൻ ൽ അത് സംഭവിക്കുന്നു പോലും ഇവിടെ സീരീസ് കോൺവെർജ്സ് ചെയ്യുന്നില്ല എങ്കിലും പക്ഷേ നമ്മൾ ഇരുവശത്തും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ തുല്യതാ ചിഹ്നം ലഭിക്കുന്നു കൂടാതെ ഞാൻ ഇതിനു മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ n ഡിനോമിനേറ്ററിൽ വരുന്നു അത് ചെറിയ പദങ്ങൾ ഉണ്ടാക്കുന്നു അതിനാൽ കോൺവെർജ്സ് എളുപ്പമാകും കൂടാതെ വലതുവശത്തുള്ള സീരീസ് ഏകതാനമായി കോൺവെർജ്സ് ചെയ്യുന്നു അത് പോയിന്റ് അടിസ്ഥാനത്തിൽ കോൺവെർജ്സ് ചെയ്യുന്നില്ല എന്നും ഇടത് വശത്തെ ഈ ഫംഗ്ഷനിലേക്ക് ഇത് ഏകതാനമായി ഒത്തുചേരുന്നുവെന്നും നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഇവിടെ എന്താണ് രസകരമായത് ഈ കോൺവെർജിനു ശേഷമുള്ള സീരീസ് ഒരു ഫൊറിയർ പരമ്പരയല്ലെന്ന് നാം ശ്രദ്ധിക്കണം അതിനാൽ ഈ പുതിയ സീരീസ് ഒരു ഫോറിയർ സീരീസ് അല്ല അതിനാൽ ഫലം ശരിയാണ് നമുക്ക് ഇരുവശവും ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും പുതിയ ബന്ധത്തിൽ നമുക്ക് തുല്യതയുണ്ട് എന്നാൽ ഇത് ഇടതുവശത്ത് ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് അല്ല വാസ്തവത്തിൽ ഇതൊരു ഫോറിയർ സീരിസ് അല്ല കാരണം a0x2 ൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ നോക്കിയാൽ സീരീസ് ഫൊറിയർ സീരിസിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നമുക്ക് സ്ഥിരമായ പദമോ നിബന്ധനകളോ ഉണ്ട് സൈനും കൊസൈനും അതിനാൽ ഇവിടെ നമുക്ക് ഈ പദം ഉണ്ട് അതിനാൽ a0x2 അത് ഫൊറിയർ സീരിസിൽ ഉണ്ടായിരിക്കില്ല അതിനാൽ ഇവിടെ ഈ പുതിയ സീരീസ് വലതുവശത്ത് ഒരു ഫൊറിയർ സീരിസ് അല്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ കൺവെർജ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ ഈ ഇന്റഗ്രേഷന്റെ തുല്യത മൂലം ഈ നല്ല ഫലം നേടുക യഥാർത്ഥ സീരീസ് കൂടാതെ വീണ്ടും നമുക്ക് ബന്ധപ്പെടാം സമവാക്യ ഇന്റഗ്രേഷൻ അടിസ്ഥാനമാക്കിയുള്ള ഫോറിയർ സീരീസ് നിർമ്മാണത്തെക്കുറിച്ച് ഓർക്കുക കൂടാതെ ഇവിടെ കൃത്യമായി സംഭവിക്കുന്നത് ഇതാണ് നമ്മൾ f ഇന്റഗ്രേഷൻ ചെയ്യുന്നു കൂടാതെ ഈ വലതുവശവും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു സ്വാഭാവികമായും ഫൊറിയർ സീരീസിന്റെ നിർമ്മാണവും കാരണം ഇവ തുല്യമായിരിക്കണം കൂടാതെ ഔപചാരികമായി നമുക്ക് ഈ ഫലം എങ്ങനെ ലഭിക്കുന്നു എന്നതിന്റെ തെളിവും ഇവിടെ നിരീക്ഷിക്കാം അതിനാൽ തെളിവിനായി നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ നിർവചിക്കാം g xf dt∧ a0 x 2 അതിനാൽ അത് യഥാർത്ഥത്തിൽ മുമ്പത്തെ സ്ലൈഡിൽ നിന്ന് തന്നെ പ്രചോദനം ആണ് അതിനാൽ ഇതാ അത് xf dt നമ്മൾ ഈ ഘടകവും a0x2 ഇടത് വശത്തേക്ക് എടുത്തിട്ടുണ്ട് അതിനാൽ ഇവിടെ നമ്മൾക്ക് πxf dt a0x2ഉണ്ട് കാരണം വലതുവശത്ത് ഇത് ഒരു ഫൊറിയർ സീരീസ് ഉണ്ടാകാതിരിക്കാൻ പ്രശ്നം സൃഷ്ടിച്ചു അതിനാൽ ഇപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഇടതുവശത്തേക്ക് കൊണ്ടുപോയി നമ്മൾ ഈ g നിർവ്വചിച്ചിരിക്കുന്നു കൂടാതെ ഇപ്പോൾ നമ്മൾ g ന്റെ ഫൊറിയർ സീരിസിനെക്കുറിച്ചു സംസാരിക്കും അതിനാൽ ഈ f കണ്ടിന്വസ് ആയ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ g തുടർച്ചയായതാണെന്ന് തെളിയിക്കാൻ വളരെ എളുപ്പമാണ് കാരണം നമ്മൾ ഫംഗ്ഷൻ ഇന്റഗ്രേഷൻ ചെയ്താൽ നമുക്ക് കൂടുതൽ സുഗമമായ ഫംഗ്ഷൻ ലഭിക്കും അതിനാൽ ഇവിടെ ഇത് തുടർച്ചയായി തുടരുകയാണെങ്കിൽ ഇന്റഗ്രേഷൻ ശേഷം വാസ്തവത്തിൽ കണ്ടിന്വസ് ഫംഗ്ഷൻ ലഭിക്കുന്നു അത് സ്റ്റാൻഡേർഡ് ഫലമാണ് നമ്മൾ ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് g ന്റെ ഡെറിവേറ്റീവ് ലഭിക്കും അതിനാൽ നമ്മൾ ക്ക് വെറും f −a02 ലഭിക്കുന്നു അതിനാൽ വാസ്തവത്തിൽ g യുടെ ഡെറിവേറ്റീവും പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ g യുടെ ഡെറിവേറ്റീവ് f ന്റെ കണ്ടിന്വസ് ൻറെ ഓരോ ഘട്ടത്തിലും ഈ f −a02ഉപയോഗിച്ച് കണക്കാക്കാം അതിനാൽ ഇത് സൂചിപ്പിക്കുന്നത് g കണ്ടിന്വസ് ആയി തുടരുന്നു എന്നാണ് കാരണം g ക്കു g എന്ന ഡെറിവേറ്റീവ് നിലനിൽക്കുന്നു കൂടാതെ g എന്നത് f ന് തുല്യമാണ് ഇത് സ്ഥിരമായ പദമാണ് f എന്നത് തുടർച്ചയായി തുടരുന്നു അതിനാൽ ഡെറിവേറ്റീവ് g എന്നത് കണ്ടിന്വസ് ആയി തുടരുന്നു കാരണം വലതുവശത്ത് കണ്ടിന്വസ് ആയി തുടരുന്നു കൂടാതെ നമ്മൾ −π ൽ g കണക്കാക്കുകയാണെങ്കിൽ ഇത് a0𝞹2 ആയി വരുന്നു നമ്മൾ ഇവിടെ −π മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ ഇത് 0 ആയി മാറുന്നു കൂടാതെ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ −π ഇട്ടാൽ ഈ − വരുന്നു നമുക്ക് a0𝞹2 ഉണ്ട് കൂടാതെ π ൽ g ഉം നമുക്ക് കാണാൻ കഴിയും ഇത് ഇവിടെ πf dt ഫലവുമായി വരുന്നു അതിനാൽ ഇവിടെ ഇത് π a0 പിന്നെ a0𝞹2 അത് a0𝞹2 മാത്രമാണ് അതിനാൽ ഈ കണ്ടിന്വസ് ഫംഗ്ഷൻ g ഉപയോഗിച്ച് അതിന്റെ ഡെറിവേറ്റീവും തുടർച്ചയായി തുടരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ π ൽ g ഉം −π ൽ g ഉം തുല്യമാണ് അതിനർത്ഥം ഫോറിയർ സീരീസ് g ഇന്റർവെൽ −π മുതൽ π വരെ കൺവെർജ്സ് ചെയ്യും എന്നാണ് അതിനാൽ എന്തായാലും നമ്മൾ ഇപ്പോൾ g ക്ക് വേണ്ടി ഫൊറിയർ സീരീസ് എഴുതാം നമ്മൾ ഈ α0 αn βn എന്നിവ എടുക്കാം അവയുടെ ഗുണങ്ങളുള്ള പുതിയ ഗുണകങ്ങൾ അതിനാൽ നമ്മൾ ക്ക് ഇപ്പോൾ ഈ ഫൊറിയർ ഗുണകങ്ങളുണ്ട് കൂടാതെ മുമ്പ് ചർച്ച ചെയ്തതുപോലെ g കണ്ടിന്വസ് ആയതിനാൽ അവസാന പോയിന്റുകളിൽ ഇതിന് തുല്യ മൂല്യമുണ്ട് അതിനാൽ നമുക്ക് ഇത് അടിസ്ഥാനപരമായി ഡിഫറെൻസിയേഷൻ ചെയ്യാം അതിനാൽ ഡിഫറെൻസിയേഷന്റെ ആദ്യ ഫലമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനാൽ ഈ സീരിസിനെ ഡിഫറെൻഷ്യറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് g യുടെ ഫൊറിയർ സീരീസ് എഴുതാൻ കഴിയും കാരണം ആ സിദ്ധാന്തത്തിന്റെ എല്ലാ വ്യവസ്ഥകളും ഇവിടെ നിറവേറ്റപ്പെടുന്നു കൂടാതെ ഈ ബന്ധം നമുക്ക് അറിയാം ആ gf −a02നമ്മൾ ഇത് ഇവിടെ f ഫോറിയർ സീരീസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് g തുല്യമാണ് കാരണം f ന്റെ ഫൊറിയർ സീരീസിന് a02 ടേം ഉണ്ടാകും അത് അവിടെ റദ്ദാക്കപ്പെടും പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഉപയോഗിച്ച സീരിസിന്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് അതിനാൽ g ന് തുല്യമായ ഫോറിയർ സീരിസിൽ ഈ സമത്വം ഇവിടെയുണ്ട് കുറഞ്ഞത് കണ്ടിന്യൂയിറ്റി ഘട്ടത്തിലും ഇത് സംഭവിക്കും കാരണം കണ്ടിന്യൂയിറ്റി ഘട്ടത്തിൽ നമുക്ക് ഈ ബന്ധം ഉണ്ട് അതിനാൽ നമുക്ക് ഇവിടെ ഫൊറിയർ സീരീസ് ഉണ്ട് g ഇതിന് തുല്യമാണ് കൂടാതെ g ൻറെ ഫൊറിയർ സീരീസും ഇത് നൽകുന്നു ഇടത് വശത്തെ ഒരേയൊരു വ്യത്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂയിറ്റി ഘട്ടത്തിൽ g ന് തുല്യമാണ് അല്ലാത്തപക്ഷം ഇവിടെ നമ്മൾ g യുടെ ഫൊറിയർ സീരീസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ അത് സാധാരണയായി എന്ന പരിമിത മൂല്യത്തിലേക്ക് ഒത്തുചേരുന്നു തുടർന്ന് അവിടെയും നമുക്ക് തുല്യതയുണ്ട് അതിനാൽ നമുക്ക് ഈ സീരിസിന് തുല്യതയുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് g ഉണ്ട് അതിനാൽ കണ്ടിന്യൂയിറ്റി ഘട്ടത്തിൽ സ്വാഭാവികമായും ഇതും g ആയി മാറും അതിനാൽ രണ്ടും തുല്യമാണ് ഇടത് വശത്ത് ഡിസ് കണ്ടിന്യൂയിറ്റി ഘട്ടത്തിൽ മാത്രം വ്യത്യാസമുണ്ട് അതിനാൽ രണ്ട് ഫംഗ്ഷനുകൾക്കും ഒരേ ഫോറിയർ സീരീസ് ഉണ്ടായിരിക്കണം കാരണം അവയിൽ ഒരെണ്ണം നിർത്തലാക്കാത്ത നിരവധി പോയിന്റുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അതിനാൽ ഏത് സാഹചര്യത്തിലും നമുക്ക് ഇപ്പോൾ ഈ ഗുണകങ്ങൾ ഇവിടെ താരതമ്യം ചെയ്യാം കാരണം ഈ സീരീസുകൾ ഒരേ സീരീസുകൾ ആയിരിക്കണം ഇവ രണ്ടും g യുടെ ഫോറിയർ സീരീസുകൾ ആണ് അതിനാൽ n βnan −nαnbn എന്നിവ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നേരിട്ടുള്ള താരതമ്യം ഇത് നമുക്ക് നൽകുന്നു കൂടാതെ ഇപ്പോൾ ഈ ബന്ധങ്ങളെ ഫോറിയർ g സീരിസിൽ മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും ഈ ഫലങ്ങൾ മാറ്റിസ്ഥാപിച്ചതിനുശേഷം നമുക്ക് ഇത് പുതിയ സീരീസ് ആയി g ലഭിക്കുന്നു ഇത് πxf dt a0x2 ആയി നിർവചിക്കപ്പെടുന്നു ഇവിടെ അവശേഷിക്കുന്നത് a0 മാത്രമാണ് അതിനാൽ ഈ ബന്ധം x ലേക്ക് എടുത്താൽ a0 ഉം ലഭിക്കും നമ്മൾ x ഇവിടെ മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ അതിനാൽ പുതിയ സീരിസിൽ അതിനാൽ ഇപ്പോൾ നമുക്ക് g യുടെ സീരിസുണ്ട് അതിനുശേഷം ഈ സ്ലൈഡിൽ നമ്മൾ കണ്ട ഈ ബന്ധവും ഉണ്ട് അതിനാൽ ഈ α0 ലഭിക്കാൻ ഈ സമവാക്യത്തിൽ നമുക്ക് ഈ x എന്നത് π ആയി സജ്ജമാക്കാം തുടർന്ന് ഈ ബന്ധം a02 a02 ഉം ഈ സംഗ്രഹവും ഇവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാം അതിനാൽ ഇത് a02 ഉണ്ടായിരിക്കുകയും സീരിസിൽ ഈ a0x2 മാറ്റിസ്ഥാപിക്കുകയും ചെയ്താൽ നമുക്ക് ഇത് കൃത്യമായി ലഭിക്കും അതിനാൽ a02യു ടെ വലതുവശത്ത് πf dt നമുക്ക് ഇവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കാം പിന്നെ നമുക്ക് ഇവിടെ ബാക്കിയുള്ളത് ഡിസ്കോഴ്സ് ആകുന്നതും x വരുന്നതും കാണാം അതിനാൽ ഇന്റഗ്രേഷൻ ശേഷം ഇക്വാലിറ്റി നിലനിൽക്കുകയും ഫലം ലഭിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ ഇത് വീണ്ടും സംഗ്രഹിക്കാൻ ഡിഫറെൻഷ്യലിന്റെ കാര്യത്തിൽ ശരിയായ ഫങ്ക്ഷനിലേക്കുള്ള കോൺവെർജീന്സിനും ബുദ്ധിമുട്ടുകൾ ഉണ്ട് പക്ഷേ ഇന്റഗ്രേഷനിൽ നമുക്ക് ഫോറിയെർ സീരീസിന്റെ രണ്ട് വശങ്ങളും ഫങ്ക്ഷനും ഇന്റഗ്രേഷൻ ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് തുല്യത ലഭിക്കും അതിനാൽ ഈ ലെക്ചർ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് കൂടാതെ വീണ്ടും നിഗമനം ചെയ്യാൻ ഫോറിയർ സീരീസിന്റെ ഡിഫറെൻസിയേഷനും ഇന്റഗ്രേഷനും നമുക്ക് നടത്താം f കണ്ടിന്യൂവസും f കണ്ടിന്യൂവസ് ആയി തുടരുകയാണെങ്കിൽ നമുക്ക് സീരീസ് പദത്തെ ടേം അനുസരിച്ച് ഡിഫറന്സിയേറ്റ് ചെയ്യാൻ കഴിയും കൂടാതെ പുതിയ സീരീസ് F ൻറെ ഫോറിയർ സീരീസ് ആയിരിക്കും എന്നിരുന്നാലും ഇന്റഗ്രേഷൻ ഭാഗത്തിന്f വെറും കണ്ടിന്യൂവസ് ആണെങ്കിൽ അല്ലെങ്കിൽ അത് ഇന്റഗ്രേഷൻ ചെയ്യാവുന്നതാണെങ്കിൽ നമുക്ക് ഫൊറിയർ സീരീസ് ലഭിക്കും ഈ നമുക്ക് എന്തായാലും അതിനെ ഇരുവശവും ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അവിടെ നമുക്ക് തുല്യതയുണ്ട് ഒരേയൊരു കാര്യം ഈ ഇന്റഗ്രേഷൻ ശേഷം പുതിയ സീരീസ് ഒരു ഫൊറിയർ സീരീസ് ആയിരിക്കില്ല പക്ഷേ ഫലം സാധുവാണ് ഈ യഥാർത്ഥ സീരീസ് കോൺവെർജ്സ് ചെയ്തില്ലെങ്കിലും ഫോറിയർ സീരീസിന്റെ ഇരുവശങ്ങളും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും രണ്ട് വശങ്ങളും −π മുതൽ x വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് അവിടെ തുല്യത ലഭിക്കും അതിനാൽ ഈ പ്രഭാഷണം അത്രമാത്രം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നന്ദി പറയുന്നു